സൂചകപദങ്ങൾ ചെസ്സ് കളിക്കാർ കഥാ ഘടന ഹലോ ചെറുകഥാ ഘടനയും പ്രേംചന്ദിന്റെ 'ദ ചെസ്സ് പ്ലെയേഴ്സ്' എന്ന ഈ സെഷനിലേക്ക് വീണ്ടും സ്വാഗതം സംഭവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളരെ ഘടനാപരമായ ഒരു കഥയാണിത് കഥയിൽ രസകരവും പ്രധാനപ്പെട്ടതുമായ തീമാറ്റിക് ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ഒരു പ്രഭുവിൻറെ വീട്ടിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് പിന്നീട് അത് മറ്റൊരു പ്രഭുവിൻറെ വീട്ടിലേക്ക് മാറുന്നു ഒപ്പം നമുക്ക് സമാന്തരതകൾ മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ രണ്ട് വീടുകൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സമാനതകൾ ഈ രണ്ട് വീടുകൾക്കും ലഖ്നൌവിലെ സമൂഹം മൊത്തത്തിലും രാജ്യത്തിനുമിടയിൽ നമുക്ക് സമാനതകൾ കാണാൻ കഴിയും പ്രേംചന്ദ് ആ സമയത്ത് സമൂഹത്തിൽ പ്രബലമായ ആഡംബരങ്ങൾക്ക് ഊന്നൽ നൽകാനുള്ള ശ്രമത്തിലാണ് സമൂഹത്തിലെ ആളുകളുടെ ആഡംബര പ്രവർത്തനങ്ങൾക്കെതിരെ അദ്ദേഹം കുറ്റപ്പെടുത്തി കൊണ്ട് വിരൽ ചൂണ്ടുന്നു ഈ ഒരു സമൂഹത്തിന്റെ തന്നെ പതനത്തിനു പിന്നിലെ കാരണം അതാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അതിനാൽ പ്രേംചന്ദിന്റെ ദ ചെസ് പ്ലെയേഴ്സ് എന്ന ലെൻസിലൂടെ നമുക്ക് ലഖ്നൌ സമൂഹത്തിലേക്ക് പെട്ടെന്ന് ഒന്ന് കണ്ണോടിക്കാം 'ലഖ്നൌ ഇന്ദ്രിയഭംഗിയിൽ മുങ്ങിപ്പോയി വലിയവരും ചെറിയവരും പണക്കാരും ദരിദ്രരും എല്ലാം അതിൽ മുങ്ങിപ്പോയി ചിലർ നൃത്തത്തിലും സംഗീതത്തിലും മുഴുകി ചിലർ ഒപ്പിയം മൂലമുണ്ടാകുന്ന മയക്കത്തിൽ ആനന്ദിക്കുന്നു ആനന്ദത്തിന്റെ സ്നേഹം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചു ലഖ്നൌ പൂർണമായും അഴിമതി നിറഞ്ഞ നഗരമായി കണക്കാക്കപ്പെടുന്നത് വളരെ രസകരമാണ് ദരിദ്രരും സമൂഹത്തിലെ താഴേത്തട്ടിലുള്ളവർ പോലും ഇന്ദ്രിയ പ്രവർത്തനങ്ങളാൽ ദുഷിക്കപ്പെട്ടു എന്റെ മുമ്പത്തെ സെഷനിൽ ലഖ്നൌവിലെ ആളുകളും ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനാൽ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് നഗരവാസികൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് എങ്ങനെ സമ്പത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അവർ അത് നഗരത്തിൽ മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതിനാൽ സമൂഹത്തിലെ ഈ നിഷേധാത്മക പ്രവർത്തനങ്ങളിൽ ലഖ്നൌവും അതിലെ സമ്പന്നരും ദരിദ്രരും ഒരുപോലെ ഉൾപ്പെട്ടിരിക്കുന്നു വലിയവരും ചെറിയവരും പണക്കാരും ദരിദ്രരും ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന വാചകത്തിലേക്ക് നോക്കുക അവരെല്ലാം അതിൽ മുങ്ങിപ്പോയിരിക്കുന്നു അവരെല്ലാം ഈ നാശത്തിന്റെ കിണറ്റിൽ വീണുപ്പോയിരിക്കുന്നു ചിലർ നൃത്തത്തിലും സംഗീതത്തിലും മുഴുകി ചിലർ കലകളിൽ തൽപരരായിരുന്നു ചിലർ കറുപ്പിൽ നിന്ന് ലഭിക്കുന്ന മയക്കത്തിൽ സന്തോഷിക്കുന്നു അവിടെ അബോധാവസ്ഥയുടെ അല്ലെങ്കിൽ അർദ്ധബോധവസ്ഥയിൽ ഉള്ള ഒരു വികാരമുണ്ട് ജീവിതം ഒട്ടുമിക്ക ആളുകൾക്കും വളരെ ശാന്തവും മയക്കമുള്ളതുമായ അവസ്ഥയായി മാറിയിരിക്കുന്നു ഈ നിർദ്ദിഷ്ട സമൂഹത്തിലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ആനന്ദം ആധിപത്യം പുലർത്തുന്നു അതിനാൽ ഈ നിർദ്ദിഷ്ട ഉദ്ധരണിയിലെ വൈകാരികഭാവം ഒരർത്ഥത്തിൽ ഇന്ദ്രിയതയും മയക്കവും നിഷ്ക്രിയത്വവുമാണ് അതിനാൽ ഈ നാമവിശേഷണങ്ങളെല്ലാം ഒരു തരത്തിൽ ലഖ്നൌ നഗരത്തിന് യോജിച്ചതാണ് പ്രേംചന്ദ് ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ലഖ്നൌവിന്റെ സാങ്കൽപ്പിക പ്രതിപാദനത്തെ കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ഓർക്കണം ചരിത്രകാരന്മാരും സാംസ്കാരിക വിമർശകരും വളരെ പോസിറ്റീവായ അർത്ഥത്തിലാണ് ലഖ്നൌവി സംസ്കാരത്തെക്കുറിച്ച് എഴുതിയത് എന്നാൽ ഈ കഥയിൽ ലഖ്നൌവിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ചിത്രം പ്രേംചന്ദിന്റെ സാങ്കൽപ്പിക ഭാവനയിൽ നിന്ന് പുറത്ത് വന്ന ഒന്നാണ് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ലഖ്നൌ സമൂഹത്തിലെ ആളുകളെ അടിമപ്പെടുത്തുന്ന സ്വഭാവത്തെ നിമഗ്നമാകുക മുങ്ങിപോകുക മയക്കത്തിലാണ്ടു എന്നീ ഈ വാക്കുകളിൽ വിവരിക്കുന്നു ഈ വാക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ആളുകൾ അപമാനിക്കപ്പെട്ടു അവർ സമൂഹത്തിൽ തരംതാഴ്ത്തപ്പെട്ടു അവരുടെ വ്യക്തിത്വം എങ്ങനെയോ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് എല്ലാവരും സുഖഭോഗങ്ങളിൽ മുഴുകുമ്പോൾ സമൂഹത്തിലെ വ്യക്തികളുടെ വ്യക്തിപരമായ ഗുണങ്ങളും വ്യക്തിഗത സവിശേഷതകളും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും ഈ ആനന്ദത്തിന്റെയും ഇന്ദ്രിയതയുടെയും മയക്കത്തിലാണ്ട് പോയിരിക്കുന്നു ആയതിനാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ സജീവമായ വശം പുറത്തെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് 'രാജാവ് മുതൽ പാവപ്പെട്ടവൻ വരെ എല്ലാവരും ഈ സുഖങ്ങളിൽ മുഴുകിയിരിക്കുന്നു എത്രമാത്രം മുഴുകിയിരിക്കുന്നു എന്നുവെച്ചാൽ യാചകർക്ക് ഭിക്ഷയായി പണം ലഭിക്കുകയാണെങ്കിൽ അവർ അത് റൊട്ടി വാങ്ങിക്കുന്നതിന് പകരം ഒപ്പിയം വാങ്ങിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇത് വളരെ ദുരന്തമാണ് സ്ലൈഡിലെ അവസാനത്തെ പ്രസ്താവനയിൽ അതായത് ദരിദ്രരായ ആളുകൾക്ക് ഭിക്ഷയായി പണം ലഭിച്ചാൽ അത് അവരുടെ ശരീരത്തിന് പോഷകഗുണമുള്ള ആരോഗ്യകരമായ ഭക്ഷണം വാങ്ങിക്കുന്നതിന് പകരം മയക്ക് മരുന്നിന് വേണ്ടിയും ഉത്തേജകത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു ആയതിനാൽ ഈ സമൂഹത്തിലെ എല്ലാവരും എല്ലാ തട്ടിലുള്ള ആളുകളും സമൂഹത്തിലെ എല്ലാവരും ദുഷിക്കപ്പെട്ടു അധഃപതിച്ചിരിക്കുന്നു അവരെല്ലാം അടിമകളായിത്തീർന്നിരിക്കുന്നു രാജാവ് മുതൽ പാവപ്പെട്ടവൻ വരെ ഈ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നു നവാബും ഈ സുഖഭോഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി പരോക്ഷമായി സൂചിപ്പിക്കുന്നു നവാബ് സുഖഭോഗങ്ങളിൽ മുഴുകിയതിനെക്കുറിച്ച് വലിയ തോതിലുള്ള വിവരണമില്ല നവാബ് സ്ത്രീകളുമായുള്ള കൂട്ടുകെട്ടിന്റെയും സംഗീതത്തിന്റെയും അതുപോലുള്ള മറ്റ് കാര്യങ്ങളുടെയും സുഖം ആസ്വദിക്കുന്നുണ്ടെന്ന് അത് വായനക്കാരോട് പറയുന്നു അതിനെക്കുറിച്ച് ഇവിടെ പരാമർശങ്ങളുണ്ട് എന്നാൽ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തി മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ വരെ എല്ലാവരും ആസക്തിയുള്ളവരാണെന്നും എല്ലാവരും സുഖത്തിന്റെയും ഇന്ദ്രിയതയുടെയും ഈ വലയിൽ മുഴുകിയിരിക്കുകയാണെന്നും അകപ്പെട്ടിരിക്കുകയാണെന്നുമുള്ള ശരിക്കും രസകരമായ ഒരു പരാമർശമുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും സുഖഭോഗത്തിന്റെ അടിമകളായിത്തീർന്നു അതായത് എല്ലാവരും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ സമൂഹത്തിൽ എല്ലാവരും കുറ്റവാളികളായി മാറുന്നു അതാണ് പ്രേംചന്ദ് ചിത്രീകരിക്കുന്നത് ദി ചെസ്സ് പ്ലേയേഴ്സിന്റെ' വേദിയായ ലഖ്നൌവിലെ ഭൂപ്രകൃതിയിലൂടെ കടന്നുപോകുന്ന എല്ലാ കഥാപാത്രങ്ങളെക്കുറിച്ചും നിങ്ങൾ തിരിഞ്ഞുനോക്കിയാൽ ആരും തികഞ്ഞവരല്ല ഒരു കഥാപാത്രവും പൂർണ്ണമായി നിർവചിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ അളവിലോ നാമമാത്രമായി പോലും അറിയില്ല എല്ലാവരും അഴിമതിയിൽ പങ്കാളികളാണ് ലഖ്നൌവിലെ ഭൂപ്രകൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ പകർച്ചവ്യാധിയിൽ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു കൂടാതെ ആരെയെങ്കിലും കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ നേരെയും തുല്യമായി കുറ്റപ്പെടുത്തലിന്റെ വിരൽ ചൂണ്ടാൻ കഴിയും സുഖലോലുപതയെക്കുറിച്ചുള്ള കഥയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കഥയുടെ തുടക്കം ലഖ്നൌവിലെ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന വിവിധതരം ആനന്ദങ്ങളുടെ ഒരു നീണ്ട വിവരണത്തോട് കൂടിയാണ് അതെല്ലാം സുഖലോലുപതയെക്കുറിച്ചാണെങ്കിൽ ഈ നിർദ്ദിഷ്ട കഥയിൽ നമുക്ക് കുറച്ചെങ്കിലും വൈരുദ്ധ്യമുണ്ടോ വ്യത്യസ്തമായ ഒരു ഭാവവ്യത്യാസമെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ കാരണം ഈ കഥ സംഘർഷത്തെ കുറിച്ചുള്ളതാണ് അല്ലേ ഒരു കഥയുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒന്നിനുപുറകെ ഒന്നായി സമാനമായ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ല അതിനാൽ കഥ എന്നത് സംഭവങ്ങളുടെ ഒരു ശൃംഖല മാത്രമല്ല കഥയിലെ കേന്ദ്രകഥാപാത്രങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന രസകരവും വ്യത്യസ്തവുമായ സംഭവങ്ങളുടെ ഒരു ശൃംഖലയാണത് അത് ആനന്ദമാണെങ്കിൽ നമുക്ക് വിവേചനം കാണിക്കാൻ കഴിയുമോ കഥാലോകത്ത് പ്രശ്നമുണ്ടാക്കുന്ന അത്തരം ആനന്ദാന്വേഷണങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ നമുക്ക് കണ്ടെത്താനാകുമോ നമുക്ക് ഇവിടെ അത്തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ട് ചില സന്തോഷങ്ങൾ കഥയിൽ ആവേശവും ഒച്ചപ്പാടും സംഘർഷവും കൊണ്ടുവരുന്നു അതിനാൽ ചെസ്സ് കളി അവിടെ ഒരു മികച്ച ഉദാഹരണമാണ് കാരണം ചെസ്സ് കളിയിൽ നമുക്ക് ധാരാളം സംഘർഷങ്ങളുണ്ട് വലിയ വിശാലമായ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരു സാധാരണ ഗെയിമാണ് അതിനാൽ ഈ ഗെയിം സംഘർഷങ്ങൾ നിറഞ്ഞതാണ് ഇത് ആക്രമണത്തെക്കുറിച്ചാണ് ഇത് എതിർ നീക്കങ്ങളെക്കുറിച്ചാണ് ഇത് രാജാവിനെ ചെക്ക്മേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇത് നൈറ്റിനെയും അതുപോലുള്ളതിനെ കൊല്ലുന്നതിനെക്കുറിച്ചുമാണ് അതിനാൽ ചെസ്സ് കളിയിൽ നമുക്ക് വളരെയധികം ആവേശവും ഒച്ചപ്പാടും സംഘർഷവുമുണ്ട് കഥയിലെ ഒരു നിർദ്ദിഷ്ട ഉദ്ധരണിയിൽ ചെസ്സ് കളിയിൽ പങ്കെടുക്കുന്ന രണ്ട് കളിക്കാർക്കിടയിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള പോരാട്ടങ്ങൾ വിവിധ തരത്തിലുള്ള നീക്കങ്ങൾ എതിർ നീക്കങ്ങൾ എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്നു ആ രണ്ട് കളിക്കാർ തീർച്ചയായും മിറും മിർസയും ആണ് 1856 ൽ ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ലഖ്നൌവിന് രാഷ്ട്രീയ ഭീഷണിയുണ്ടായിരുന്നപ്പോൾ രാഷ്ട്രീയ കുതന്ത്രങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം നവാബ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിമാരോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരോ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ ഈ രണ്ട് പ്രഭുക്കന്മാരും ഒരു ചതുരംഗപ്പലകയിൽ തന്ത്രങ്ങൾ മെനയുന്ന നീക്കങ്ങളിലൂടെ അവയുടെ ഒരു നേർക്കാഴ്ച നമുക്ക് ലഭിക്കും അത് വളരെ വിരോധാഭാസമാണ് പ്രേംചന്ദ് ആ പ്രത്യേക ഘട്ടത്തിൽ ലഖ്നൌവിലെ സമൂഹത്തെ ഏറെക്കുറെ ആക്ഷേപഹാസ്യമാക്കുകയാണ് അതിനാൽ ഈ നിർദ്ദിഷ്ട വിവരണത്തിലെ വൈരുദ്ധ്യങ്ങളുടെ വിരോധാഭാസമായ ഒരു കാഴ്ച്ചയും ചെസ്സ് കളിയിലെ വൈരുദ്ധ്യങ്ങളെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈ നിർദ്ദിഷ്ട ഉദ്ധരണി ഇവിടെയുണ്ട് പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നു പുതിയ കാസ്ലിംഗ് നീക്കങ്ങൾ ആവിഷ്കരിച്ചു വാദങ്ങളും ആരോപണങ്ങളും അവിടെ ഉണ്ടാകുന്നു പക്ഷേ ഉടൻ തന്നെ രണ്ട് സുഹൃത്തുക്കളും അനുരഞ്ജനത്തിലാകുന്നു ചിലപ്പോൾ കളി പാതിവഴിയിൽ അവസാനിപ്പിക്കുന്നു എന്നിട്ട് വേർപിരിഞ്ഞ് മിർസ സാഹിബ് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകും മീർ സാഹിബ് അകത്തേക്ക് പോകും എന്നാൽ രാത്രിയിലെ ഉറക്കം കഴിഞ്ഞ ദിവസത്തെ നീരസത്തെ ഇല്ലാതാക്കുന്നു എന്നിട്ട് രണ്ടു സുഹൃത്തുക്കളും വീണ്ടും തിരികെ ദേവൻഖാനയിൽ എത്തുന്നു ' എതിരാളിയെ മറികടക്കുന്ന പുതിയ നീക്കങ്ങൾ അവർ ആവിഷ്കരിക്കുന്നു മറ്റേ എതിരാളിയെ തോൽപിക്കാൻ വേണ്ടി അവർ പുതിയ കാസ്ലിംഗ് നീക്കങ്ങൾ നടത്തും ചെസ്സ് കളിയുടെ കാര്യത്തിൽ മറ്റേ വ്യക്തിയെ അപകടത്തിലാക്കുന്നു ഒപ്പം ചെസ്സ് കളിയെ ചൊല്ലി രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാകുന്നു എന്നാൽ ചിലപ്പോൾ അവർ അതേ ദിവസം തന്നെ അനുരഞ്ജനത്തിലാകും ചിലപ്പോൾ അവർ കളി നിർത്തും ആ വ്യക്തികളിൽ ഒരാൾ മിർസ അവൻ പുറത്തേക്ക് കടന്ന് വീട്ടിലേക്ക് പോകും രാത്രി വിശ്രമത്തിനുശേഷം അവൻ അനുരഞ്ജനത്തിലാകും അവൻ മറ്റൊരു ചെസ്സ് കളി ആരംഭിക്കാൻ സുഹൃത്തിന്റെ വീട്ടിൽ തിരിച്ചെത്തും 1856 ലെ ലഖ്നൌവിലെ യാഥാർത്ഥ്യവുമായി അടിസ്ഥാനപരമായ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബദൽ ലോകത്ത് ഏതാണ്ട് ഒരു വെർച്വൽ ലോകത്ത് ഈ വഴക്കുകളും വാദങ്ങളും തന്ത്രങ്ങളും ഈ ചതുരംഗ ബോർഡിന് മുകളിലൂടെ കടന്നുപോകുന്നു ഞാൻ പറഞ്ഞതുപോലെ ഈ തന്ത്രങ്ങൾ കാസ്റ്റ്ലിംഗ് നീക്കങ്ങൾ അകൽച്ചകൾ അഭിപ്രായവ്യത്യാസങ്ങൾ വേർപിരിയൽ പരസ്പരം അമർഷം അനുരഞ്ജനം ഒരിക്കൽ കൂടി സുഹൃത്തുക്കളാകുക ഇതെല്ലാം ഒരു ബദൽ ലോകത്ത് ഈ ചെസ്സിന്റെ ലോകത്ത് സംഭവിക്കുന്നു ആ ഗെയിം ഉൽപ്പാദനക്ഷമമായ ഉദ്യമം അല്ല അതാണ് പ്രശ്നം ചെസ്സ് കളി ഒരു ഹോബിയായിട്ടല്ല ഈ പ്രഭുക്കന്മാർ കളിക്കുന്നത് എന്നാൽ അവർക്ക് അത് ജീവിതമായി മാറുന്നു അത് ഒരു മികച്ച ഒഴിഞ്ഞ് മാറൽ ഗെയിമായി മാറുന്നു അവരുടെ ഭാര്യമാരോടും സമൂഹത്തോടും രാജാവിനോടും നവാബിനോടുമുള്ള സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവരെ അകറ്റുന്ന ഒരു പ്രവർത്തനം ഈ നിർദ്ദിഷ്ട കഥയിൽ പ്രേംചന്ദിന്റെ ഭാവന പ്രകാരം ലഖ്നൌവിലെ സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നമാണ് സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഈ നിരാകരണം അതിനാൽ പ്രമേയങ്ങളിൽ ഒന്ന് ഈ നിർദ്ദിഷ്ട കഥയിൽ നിങ്ങൾ ഒരു പ്രമേയത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇതാണ് സാമൂഹ്യ പ്രതിബദ്ധത നിരസിക്കുന്നത് അനിവാര്യമായും ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അത് രാജ്യത്തിനും രാഷ്ട്രത്തിനും ആഗോള സാമൂഹിക ക്രമത്തിന് തന്നെയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു അതിനാൽ ഈ കഥയിൽ എല്ലാവരും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു അത് എല്ലാവർക്കും കാണത്തക്കവിധം വായനക്കാരന്റെ കൺമുന്നിൽ ഭംഗിയായി നിരത്തിയിരിക്കുന്നു അപ്പോൾ എന്താണ് ആഖ്യാന സങ്കീർണ്ണത ഈ കഥയിൽ നമ്മൾ ഇതുവരെ കണ്ടതാണ് അതായത് ഒരു പ്രഭുവിന്റെ വീട്ടിൽ ചെസ്സ് കളി നടക്കുന്നതും പ്രഭുവിൻറെ ഭാര്യയുടെ അനിഷ്ടം മൂലം സങ്കീർണതകൾ വർദ്ധിക്കുന്നതിനാൽ അത് പിന്നീട് മറ്റൊരു പ്രഭുവിൻറെ വീട്ടിലേക്ക് അതായത് മിറിന്റെ വീട്ടിലേക്ക് മാറ്റുന്നു തുടർന്ന് അവിടെയും കൂടുതൽ സങ്കീർണ്ണതയുണ്ട് അതിനാൽ പ്രതിസന്ധി യഥാർത്ഥത്തിൽ വരുന്നതിനുമുമ്പ് ഈ കഥയിൽ നമുക്ക് രണ്ട് പ്രധാന സംഭവങ്ങളുണ്ട് അതുകൊണ്ട് കഥയിൽ സംഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ കഥയുടെ രണ്ട് രംഗങ്ങളും രണ്ട് ഘട്ടങ്ങളും നാം ഓർക്കേണ്ടതുണ്ട് അതിനാൽ കഥ മിറിന്റെ വീട്ടിൽ നിന്ന് മാറാൻ പോകുന്നു നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അത് ആദ്യം മിർസയുടെ വീട്ടിലായിരുന്നു കഥ മിർസയുടെ വീട്ടിൽ നിന്ന് മിറിന്റെ വീട്ടിലേക്ക് മാറി ഒടുവിൽ അത് ഗോമതി നദിയുടെ തീരത്തേക്ക് നീങ്ങാൻ പോകുന്നു മിറിന്റെ വീട്ടിൽ നിന്ന് രണ്ട് സുഹൃത്തുക്കളെയും ഗോമതി നദീതീരത്തിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്ന സങ്കീർണ്ണത എന്താണെന്ന് നമുക്ക് നോക്കാം മിറിന്റെ വീട്ടിൽ അവർ ഈ ചെസ്സ് കളി കളിക്കുമ്പോൾ ഒരു സന്ദർശകൻ എത്തുന്നു വാസ്തവത്തിൽ രാജാവ് പറഞ്ഞയച്ച ഒരു ദൂതൻ രാജാവ് യജമാനനെ പ്രതീക്ഷിക്കുന്നുവെന്ന് ദൂതൻ മിറിന്റെ ദാസനോട് പറയുന്നു യജമാനനെ വിളിക്കുന്നു യജമാനൻ ഹാജരാവാൻ രാജാവ് കൽപിക്കുന്നു വിളിപ്പിക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ദാസൻ അയാളോട് ചോദിക്കുന്നു അപ്പോൾ ദൂതൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നു ഒരുപക്ഷേ രാജാവിന്റെ സൈന്യത്തിന് കുറച്ച് പടയാളികളെ അദ്ദേഹത്തിന് നൽകേണ്ടി വന്നേക്കാം 'ജാഗിർദാരി' ഒരു തമാശയല്ല യുദ്ധക്കളത്തിലേക്ക് പോകേണ്ടിവന്നാൽ അതെന്താണെന്ന് അവനറിയാം ദൂതൻ മിറിന്റെ വാതിൽപ്പടിയിൽ എത്തുകയും അദ്ദേഹം മിറിന്റെ വേലക്കാരനോട് സംസാരിക്കുകയും ചെയ്യുന്നു അവൻ വളരെ പരുഷമായും മര്യാദയില്ലാത്ത രീതിയിലും സംസാരിക്കുന്നു ഒരുപക്ഷേ രാജാവ് തന്റെ സൈന്യത്തിന് സൈന്യത്തെ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ജാഗിർദാരി എന്ന പ്രഭുത്വ സമ്പ്രദായം എളുപ്പമുള്ള ജോലിയല്ലെന്നും അദ്ദേഹം പറയുന്നു അത് തികച്ചും അതീവ ശ്രദ്ധ വേണ്ടുന്ന ഒന്നാണ് അത് അവൻ അറിയുകയും ചെയ്യാം അതായത് ഒരിക്കൽ അവൻ യുദ്ധക്കളത്തിൽ പോയാൽ യഥാർത്ഥ ഉത്തരവാദിത്തം അവനറിയാം ജാഗിർദാരിയുടെ യഥാർത്ഥ സ്വഭാവം അന്നത്തെ സമൂഹത്തിൽ നടപ്പിലുണ്ടായിരുന്ന പ്രഭുവർഗ്ഗ വ്യവസ്ഥ അതിനാൽ ദൂതൻ യഥാർത്ഥത്തിൽ പ്രഭുക്കന്മാരുടെ കടമകളെക്കുറിച്ച് ദാസനെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ അവൻ ചെയ്യേണ്ടതോ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നതോ ആയ പ്രവർത്തനങ്ങളുടെ ഒരു കാഴ്ച വായനക്കാർക്ക് ലഭിക്കുന്നു ചരിത്രത്തിലെ ഈ നിമിഷത്തിൽ നവാബ് നേതൃത്വം നൽകുന്ന യുദ്ധത്തിന് സൈന്യത്തെ വാഗ്ദാനം ചെയ്യുന്നതാണ് ആ സംഭാവന ആ യുദ്ധം നവാബ് ചെയ്യുമെന്ന് കരുതപ്പെടുന്നു അവിടെ രാജാവിന്റെ ദൂതന്റെ ഭാഗത്തുനിന്ന് അൽപ്പം അഹങ്കാരവും നമുക്ക് കാണാൻ കഴിയും ദൂതന്റെ സംസാരത്തിൽ പ്രകടമായ ആ അഹങ്കാരം എന്താണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കും ഈ ജാഗിർദാരി എന്നാൽ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം അത് ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ഒരു സംസ്ഥാനം ഭരിക്കാനുള്ള ഒരു രാജ്യം ഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് അവർ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ പ്രഭുക്കന്മാർ എന്ന് വിളിക്കുന്നു അവർ ഒരു നിർദ്ദിഷ്ട പ്രദേശത്തിനായി വരുമാനം ശേഖരിക്കുന്നു എന്നിട്ട് ആ നിർദ്ദിഷ്ട പ്രദേശം അവർ ഭരിക്കുന്നു ആ പ്രദേശത്ത് നിന്ന് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേക പദവിക്ക് പകരമായി അദ്ദേഹം പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജാവിന് സൈന്യത്തെ വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ അയാൾക്ക് സൈനികരുടെ ഒരു സംഘത്തെ പരിപാലിക്കേണ്ടതുണ്ട് ഒരു യുദ്ധത്തിന് ആവശ്യമായി വരുമ്പോൾ അവരെ രാജാവിന്റെ അടുത്തേക്ക് അയയ്ക്കണം അതിനാൽ ഇത് സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥനും പ്രഭുവും സംസ്ഥാന ഭരണാധികാരിയും തമ്മിലുള്ള കരാറാണ് അതിനാൽ മിറിനെ രാജാവിന്റെ അടുക്കലേക്ക് തിരികെ വിളിക്കുന്ന രാജാവിൽ നിന്നുള്ള ഈ സന്ദേശവാഹകനെ കാണുമ്പോൾ മിറിന്റെ വീട്ടിൽ ഈ ഒരു പ്രതിസന്ധിയുണ്ട് അതിനാൽ മിർ ഇതിനെ ഒരു വിപത്തായി ഒരു വലിയ ദുരന്തമായി കാണുന്നു അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ദുരന്തമായാണ് ഈ സമൻസിനെ കാണുന്നത് അതിനാൽ രാജാവിന്റെ അടുത്ത് ചെന്ന് സൈന്യത്തെ വാഗ്ദാനം ചെയ്യുകയും രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്താൽ തങ്ങൾ യുദ്ധക്കളത്തിൽ മരിക്കുമെന്ന് മിറും മിർസയും പെട്ടെന്ന് സങ്കൽപ്പിക്കുന്നു അതിനാൽ ദാസനിൽ നിന്നുള്ള സമൻസ് അവരെ ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നു യുദ്ധക്കളത്തിലെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഈ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും രാജാവിൽ നിന്നുള്ള സമൻസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഗോമതി നദിയുടെ തീരത്തേക്ക് ഓടിച്ചെന്ന് ആരും അറിയാത്ത ആർക്കും കണ്ടെത്തുവാൻ കഴിയാത്ത സ്ഥലത്ത് ചെസ്സ് കളിക്കുക എന്നതാണ് ഏക മാർഗമെന്ന് അവർ തീരുമാനിക്കുന്നു ദൂതൻ വീണ്ടും വന്നാൽ യജമാനൻ വീട്ടിലില്ലെന്ന് അറിയുമെന്നും ദൂതൻ വെറുംകൈയോടെ മടങ്ങുമെന്നും അവർ കരുതുന്നു അതിനാൽ ഇത് ഒരു വിചിത്രവും ദയനീയവുമായ തന്ത്രമാണ് പക്ഷേ കഥയിൽ സംഭവിക്കുന്ന ആ പ്രതിസന്ധിയാണ് മിറിനെയും മിർസയെയും മിറിന്റെ വീട്ടിൽ നിന്ന് ഗോമതി നദിയുടെ തീരത്തേക്ക് തള്ളിവിടുന്നത് ഇപ്പോൾ അവർ പറയുന്നു 'ഗോമതിയുടെ തീരത്ത് ഏകാന്തമായ സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ ബോർഡ് വിരിക്കാം ആരും അറിയുകയില്ല ദൂതൻ വെറുംകൈയോടെ മടങ്ങുകയും ചെയ്യും തങ്ങളെ രാജാവിന്റെ സന്നിധിയിലേക്ക് വിളിപ്പിക്കാൻ മടങ്ങിവരുന്ന ദൂതനെ കബളിപ്പിക്കാൻ അവർ മെനഞ്ഞെടുത്ത തന്ത്രമാണിത് സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ തിരസ്കരണത്തിന്റെ പാരമ്യമാണിത് ഭരണാധികാരിക്ക് ആവശ്യമുള്ളപ്പോൾ കുഴപ്പത്തിൽ ആയിരിക്കുമ്പോൾ സൈന്യത്തെ നൽകാൻ അവർ ഭരണാധികാരിയുമായി കരാർ ഉണ്ടാക്കുന്നു അവർ ആ കരാർ ധാർഷ്ട്യത്തോടെ നിരസിക്കുന്നു അതാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആസക്തിയുടെ വ്യാപ്തി അതിനാൽ പ്രഭുക്കന്മാരുടെ ഭാഗത്തുനിന്നുള്ള ഈ പ്രതികരണം കാണുന്നത് വളരെ അധികം ദാരുണവും രസകരവുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലോകം ഈ പ്രത്യേക ചെസ്സ് ബോർഡിലേക്ക് ചുരുങ്ങി ചെസ്സ് കളിയല്ലാതെ മറ്റൊന്നും പ്രധാനമല്ല കൂടാതെ അവർ പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് അകന്നുപോകാൻ ആഗ്രഹിക്കുന്നു പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ആരും തങ്ങളെ സൈനികരുടെ സംഘത്തെ അയക്കണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താത്ത ഏകാന്തമായ സ്ഥലത്ത് ആയിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഒരു ഭാര്യയും അവരെ ബുദ്ധിമുട്ടിക്കില്ല ഒരു വേലക്കാരും അവരെ ശല്യപ്പെടുത്താത്ത ഏകാന്തമായ സ്ഥലത്ത് അതുകൊണ്ട് ചെസ്സ് കളിയുടെ ആ പ്രത്യേക സുഖം ആസ്വദിക്കാൻ അവർ ചില ഒറ്റപ്പെടലുകൾ ആഗ്രഹിക്കുന്നു മിറിനെയും മിർസയെയും വീട്ടിൽ നിന്ന് അകറ്റുന്ന ഈ പ്രതിസന്ധി ഒരു വ്യാജ പ്രതിസന്ധിയാണെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു വ്യാജ പ്രതിസന്ധിയാണ് കാരണം ഒരുപക്ഷേ ദൂതനുമായി അവിഹിതബന്ധം പുലർത്തുന്ന മിറിന്റെ ഭാര്യയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് ഭർത്താവിനെ ശാസിക്കാനും വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനും അവൾ ദൂതനെ ഉപയോഗിച്ചു മിറിനും അവന്റെ സുഹൃത്തിന്റെ നന്മക്കുവേണ്ടി കളിച്ച ഒരുതരം ചെറിയ നാടക അഭിനയമാണിത് അതിനാൽ മിറിന്റെ ഭാര്യയുടെ കാമുകൻ രാജാവ് പറഞ്ഞയച്ചിട്ട് വന്ന ഒരു വ്യക്തിയായി പ്രവർത്തിക്കുന്നു എന്നിട്ട് അവൻ ഈ സന്ദേശം നൽകുന്നു അത് സത്യമെന്ന് വ്യാഖ്യാനിക്കാവുന്നവയായിരുന്നു കാരണം ആ ഘട്ടത്തിൽ രാജ്യത്ത് രാഷ്ട്രീയ പ്രക്ഷുബ്ധതയുണ്ടായിരുന്നു അതിനാൽ മിറും മിർസയും ദൂതൻ പറഞ്ഞ കഥ വിശ്വസിക്കുന്നു ദൂതൻ അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നു അതിനാൽ മിറിന്റെ ഭാര്യയുടെ മൊഴി ഇതാണ് നീ അവനെ നല്ലത് പോലെ ശാസിച്ചു നല്ല ശാസന നൽകി ശാസന എന്നാൽ ശകാരിക്കുക അപ്പോൾ കാമുകൻ പറയുന്നു അത്തരം വിഡ്ഢികളെ നൃത്തം ചെയ്യിക്കാൻ എനിക്കറിയാമെന്ന് അവരുടെ ബോധവും ധൈര്യവും എല്ലാം ചെസ്സ് നശിപ്പിച്ചു ഇപ്പോൾ അവർ അബദ്ധത്തിൽ പോലും വീട്ടിൽ നിൽക്കില്ല അതിനാൽ അഹങ്കാരം ആ പ്രത്യേക കാര്യം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അത് ദൂതന്റെ ദാസന്റെ വാക്കുകളിൽ വ്യക്തമാണ് അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രഭു ഒരു വിഡ്ഢിയാണെന്ന് ദൂതനോ കാമുകനോ അറിയുന്നു എന്ന വസ്തുതയാണ് ഒരു കൂട്ടം ആശയങ്ങൾ ഉപയോഗിച്ച് ഈ വിഡ്ഢിയെ നൃത്തം ചെയ്യിക്കാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട് അവരുടെ എല്ലാ ബുദ്ധിയും ധൈര്യവും ചോർന്നുപോയി ചെസ്സിനോടുള്ള ആസക്തിയോ അഭിനിവേശമോ മൂലം ഉന്മൂലനം ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹത്തിനറിയാം അബദ്ധവശാൽ പോലും അവർ വീട്ടിൽ നിൽക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു അതിനർത്ഥം ബീഗത്തിനും കാമുകനും അവരുടെ അവിഹിത ബന്ധം തുടരാനുള്ള സാഹചര്യം തെളിഞ്ഞു എന്നാണ് അതിനാൽ ഈ രണ്ട് പ്രഭുക്കന്മാരെയും അവരുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള രസകരമായ ഒരു മാർഗമാണിത് ഈ നിർദ്ദിഷ്ട കഥയിലെ വേദി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു ഇപ്പോൾ ഈ ചെറുകഥയിലെ ഈ വിവരണത്തിൽ സ്ഥലപരമായ പ്രാധാന്യം പ്രകടമാണ് അതിനാൽ നഗരത്തിലെ ആളുകളുടെ ഇന്ദ്രിയസുഖങ്ങളാൽ ദുഷിക്കപ്പെട്ട ഒരു നഗര ഇടം നമുക്കുണ്ട് അതനുസരിച്ച് നഗരത്തിനുള്ളിലെ ഗാർഹിക സ്ഥലവും അഴിമതി നിറഞ്ഞതാണ് മറുവശത്ത് നമുക്ക് മിർസയുടെ ബീഗമുണ്ട് അവൾ സ്വയം കേന്ദ്രീകൃതയായതിനാൽ അവൾക്ക് വേണ്ടത് ഭർത്താവിന്റെ ശ്രദ്ധയാണ് ആഖ്യാനത്തിൽ അവളുടെ മറ്റ് ഉദ്യമങ്ങളെ കുറിച്ച് ഒരു സൂചനയും നൽകുന്നില്ല ദിവസം മുഴുവൻ അവൾ ഭർത്താവിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ തന്ത്രങ്ങൾ മെനയുന്നതായി കാണുന്നു അതിനാൽ നമുക്ക് അവിടെ ഒരു സ്വാർത്ഥ ഭാര്യയുണ്ട് മറുവശത്ത് നമുക്ക് മിറിന്റെ ഭാര്യയുണ്ട് അവൾ ഭാര്യയുടെ കർത്തവ്യം പൂർണ്ണമായും അട്ടിമറിക്കുന്നു മറ്റൊരു പുരുഷനുമായി അവിഹിത ബന്ധം പുലർത്തുന്നതിലൂടെ വിശ്വസ്തയായ ഭാര്യയുടെ കർത്തവ്യം അട്ടിമറിക്കുന്നു അതിനാൽ ആ സ്ഥലത്ത് അധിവസിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളാൽ ദുഷിച്ച രണ്ട് ഇടങ്ങൾ നമുക്കുണ്ട് ഇപ്പോൾ നമുക്ക് മറ്റൊരു ഇടമുണ്ട് അത് പ്രകൃതിദത്തമായ ഇടമാണ് ഗോമതി നദിയാണ് ഈ നിർദ്ദിഷ്ട കഥയുടെ അവസാനഘട്ടം ആ സ്ഥലത്ത് ഒരു വിജനമായപ്രദേശമുണ്ട് ഗെയിമിൽ പങ്കെടുക്കുന്ന രണ്ട് പേരുടെയും അഭിപ്രായത്തിൽ അത് ഒരു ഏകാന്ത സ്ഥലമാണ് അത് ഈ നിർദ്ദിഷ്ട കഥാപാത്രങ്ങളുടെ വിഡ്ഢിത്തത്തിന്റെ ചുരുളഴിക്കുന്ന വേദിയാണ് അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനാൽ മിറിന്റെ ഭാര്യയുടെ ഭാഗത്തുനിന്ന് രസകരമായ ചില തന്ത്രങ്ങൾ നമ്മൾ കണ്ടു ഈ രണ്ട് പ്രഭുക്കന്മാരും വിഡ്ഢികളാണെന്നും ദൂതന്റെ ആധികാരികതയോ രാജാവിൽ നിന്ന് വന്ന സന്ദേശത്തിന്റെയോ ആധികാരികത പരിശോധിക്കാൻ പോലും കഴിയാത്ത വിഡ്ഢികളാണെന്ന് ആ വ്യാജ പ്രതിസന്ധിയിൽ വെളിപ്പെടുന്നു അതിനുള്ള ധൈര്യം പോലും അവർക്കില്ല ചെസ്സ് കളിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും രാജാവിൽ നിന്നുള്ള ഈ ദൂതനെ കാണാനും പോലും അവർക്ക് ധൈര്യമില്ല അതിനാൽ ദൂതൻ അവരെ വിശേഷിപ്പിച്ചത് ധൈര്യം ശേഷിക്കാത്ത ആവേശഭരിതരായ മനുഷ്യരായിട്ടാണ് അത് ശരിയുമാണ് കഥയുടെ അവസാനത്തിലും അങ്ങനെയാണോ എന്നും ഈ കഥയിൽ പ്രകടമാകുന്ന വ്യത്യസ്ത തരം സാഹസികതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം കഥയുടെ അവസാനഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രേംചന്ദ് തന്റെ കഥകളിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന മനഃശാസ്ത്രപരമായ ക്ലൈമാക്സിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഊന്നിപ്പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ നിർദ്ദിഷ്ട കഥയിലെ ദാസന്മാരുടെയും സന്ദേശവാഹകരുടെയും ഭാര്യമാരുടെയും പങ്കിനെപ്പറ്റിയും നാം ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു സമൂഹത്തിൽ ഉടനീളം വ്യാപിച്ചുകിടക്കുന്ന ധാർമ്മിക അഴിമതിയിൽ അധാർമിക പകർച്ചവ്യാധിയിൽ ഈ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു ഞാൻ ഇതിനെ ധാർമ്മിക പകർച്ചവ്യാധി എന്ന് വിളിക്കുന്നു കാരണം അധികാരശ്രേണികൾ അട്ടിമറിക്കപ്പെടുന്നു ക്രമം തകിടം മറിയുന്നു സാമൂഹിക ക്രമം തകിടം മറിയുന്നു സേവകർ അത് ചെയ്യുന്നു സന്ദേശവാഹകർ അത് ചെയ്യുന്നു കാരണം അവർ വ്യാജ സന്ദേശവാഹകരായി പ്രവർത്തിക്കുന്നു ഭാര്യമാരും അപ്രകാരം ചെയ്യുന്നു കാരണം ഗൃഹാതുരത്വം തകരുന്നു ഗൃഹാതുരത്വത്തിന്റെ തകർച്ചയ്ക്കൊപ്പം സാമൂഹിക ക്രമവും തകരുകയാണ് കാരണം ആരും അവരുടെ ഉത്തരവാദിത്തമോ സാമൂഹിക കടമകളോ നിർവഹിക്കുന്നില്ല അതിനാൽ ഈ പ്രത്യേക നഗരമായ ലഖ്നൌവിൽ അധികാരശ്രേണികൾ അട്ടിമറിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഈ കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് വരാം നദി രസകരമായ ഒരു പശ്ചാത്തലമാണ് കാരണം അത് നഗരത്തിന് പുറത്താണ് മാത്രമല്ല അത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് ആളുകളുടെ തിരക്ക് തീരെയില്ലാത്ത ഏകാന്തമായ ഒരു കായിക വിനോദം രണ്ട് കഥാപാത്രങ്ങൾ ഈ ആളൊഴിഞ്ഞ മസ്ജിദ് ജീർണിച്ച പള്ളി ഇപ്പോൾ പ്രവർത്തിക്കാത്ത ഒരു പള്ളി വീണ്ടും അത് ഈ കഥയിലെ വളരെ രസകരമായ ഒരു പ്രതീകമാണ് ഒരു പ്രത്യേക സ്ഥലത്തിനുള്ളിൽ സംഭവിക്കുന്ന പ്രവർത്തനത്തിന്റെ അഭാവം അതിന് തിരിച്ചറിയപ്പെട്ട ഒരു നിശ്ചിത ലക്ഷ്യമുണ്ട് ഈ രണ്ട് പേരും അവരോടൊപ്പം പുകയില ചില്ലം വീഞ്ഞ് എന്നിവ കൊണ്ടുപോകുന്നു ചില്ലം ഒരു പൈപ്പ് പുകയിലയാണ് അവർ എല്ലാ ദിവസവും തുടർച്ചയായി കളിക്കുന്ന കളികൾ ആസ്വദിക്കാൻ വേണ്ടി നദിയുടെ തീരത്തേക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നു അവർ ഈ ഗെയിമിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും മറക്കുകയും ചെയ്യുന്നു അതാണ് അവരുടെ അഭിനിവേശത്തിന്റെ അല്ലെങ്കിൽ ആസക്തിയുടെ വ്യാപ്തി അതുകൊണ്ട് ജീവിതത്തെ അട്ടിമറിക്കുന്ന ഒരു വശം ഈ ചെസ്സ് കളിയിലൂടെ പ്രകടമാണ് കാരണം അത് കളിക്കുന്ന മനുഷ്യരുടെ ആത്മാവിനെ വലിച്ചെടുക്കുകയോ എടുത്തുകളയുകയോ ചെയ്യുന്നു കാരണം അവർ ഈ പ്രവർത്തനത്തിൽ അകപ്പെട്ടതിനാൽ ഭക്ഷണം ഉറക്കം വിശ്രമം തുടങ്ങിയ സാധാരണ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പോലും അവർ മറക്കുന്നു അതിനാൽ ലഖ്നൌവിൽ കലാപം ഉണ്ടാകുന്നു ഇംഗ്ലീഷ് കമ്പനിയുടെ സൈന്യം രാജ്യം ആക്രമിക്കുന്നു ആളുകൾ ഗ്രാമങ്ങളിലേക്ക് ഓടിപ്പോകുന്നു നഗരത്തിൽ നിന്ന് രാജ്യത്തേക്കുള്ള ഈ ചലനം വളരെ രസകരമാണ് കാരണം നിങ്ങൾ കഥ ഓർക്കുന്നുണ്ടെങ്കിൽ നേരത്തെ സമ്പത്ത് രാജ്യത്ത് നിന്ന് നഗരത്തിലേക്ക് കൊണ്ടുപോയി അത് ധനകാര്യം പാചകരീതി മറ്റ് കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഉൽപാദനക്ഷമമല്ലാത്ത കാര്യങ്ങൾക്കായി ചെലവഴിച്ചു ഇപ്പോൾ കമ്പനിയുടെ സൈന്യം നഗരം കൈയടക്കിക്കഴിഞ്ഞാൽ അവർ നഗരം ആക്രമിക്കുമ്പോൾ ആളുകൾ നഗരത്തിൽ നിന്ന് നാട്ടിൻപുറങ്ങളിലേക്ക് എന്തെങ്കിലും സഹായം ലഭിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നു ഇത് സംഭവിക്കുമ്പോൾ പോലും നമ്മുടെ രണ്ട് കളിക്കാരും അതിനെ കുറിച്ച് ആശങ്ക ഉള്ളവർ അല്ല അവർ പൂർണ്ണമായും അജ്ഞരാണ് സംസ്ഥാനത്തിന്റെ സ്ഥിതിഗതികളിൽ അവർ ഒട്ടും ആശങ്കപ്പെടുന്നില്ല അതിനാൽ അവരുടെ മനോഭാവത്തെ കുറിച്ച് വിവരിക്കുന്ന ഉദ്ധരണിയാണ് ഇത് 'എന്നാൽ നമ്മുടെ രണ്ട് കളിക്കാരും അതിനെ കുറിച്ച് ആശങ്ക ഉള്ളവർ അല്ല അവർ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഇടുങ്ങിയ വഴികളിലൂടെ ഒളിഞ്ഞുനോക്കി എന്നിട്ട് രാജാവിന്റെ ആളുകളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയി ഒന്നും ചെയ്യാതെ പ്രതിവർഷം ആയിരക്കണക്കിന് രൂപ ആദായം ലഭിക്കുന്ന ജാഗിറുകളിൽ നിന്നുള്ള നേട്ടങ്ങൾ ആസ്വദിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതിനാൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചും നമുക്ക് വിവരണം ഉണ്ട് നഗരത്തിൽ വന്ന സൈന്യം അവരെ പൂർണ്ണമായും ബാധിച്ചിട്ടില്ല അവർ എങ്ങനെയെങ്കിലും കള്ളന്മാരെപ്പോലെ അവരുടെ വീടുകളിൽ നിന്ന് ഒളിച്ചോടുന്നത് കാണുന്നത് വളരെ രസകരമാണ് അവർക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളതിനാൽ കളിക്കാൻ വേണ്ടി ഗോമതി നദിയുടെ തീരത്തേക്ക് രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു നഗരം മുഴുവൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ പിടിയിൽ അകപ്പെടുമ്പോൾ അവർ ആകെ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കളിക്കുക അവരുടെ കളി തുടരുക എന്നതാണ് അതിനാൽ അവർ തങ്ങളുടെ വീടുകളിൽ നിന്ന് കള്ളന്മാരെപ്പോലെ രക്ഷപ്പെടുന്നു കൂടാതെ രാജാവിന്റെ പടയാളികളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു കാരണം അവർ അവരെ പ്രഭുക്കന്മാരാണെന്ന് തിരിച്ചറിയുകയും അവരിൽ തെറ്റ് കണ്ടെത്തുകയും അല്ലെങ്കിൽ അവരുടെ കാര്യം ചെയ്യാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യും അതിനാൽ ഈ സൈനികരുടെയെല്ലാം കണ്മുൻപിൽ നിന്നും അവർ അകന്നുപോകുന്നു ആഖ്യാതാവ് ഇപ്രകാരം പറയുന്നു ഇതാണ് ആഖ്യാതാവിന്റെ അഭിപ്രായം ആയിരക്കണക്കിന് രൂപ ആദായം ലഭിക്കുന്ന ജാഗിറുകളിൽ നിന്നുള്ള നേട്ടങ്ങൾ ആസ്വദിക്കാൻ അവർ ആഗ്രഹിച്ചു അതിനാൽ അവർക്ക് വരുമാനം വേണം അവർക്ക് ധന ആനുകൂല്യങ്ങൾ വേണം പക്ഷേ അവർ അതിനുപകരമായി തിരിച്ചൊന്നും ചെയ്യുന്നില്ല അതാണ് കഥാകാരന്റെ അഭിപ്രായം ആഖ്യാതാവ് വളരെ പരുഷമായി വളരെ പരിഹാസത്തോടെ ഈ രണ്ട് കഥാപാത്രങ്ങളെയും അദ്ദേഹം തുറന്ന് വിമർശിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ലഖ്നൌ സംസ്ഥാനത്തിലെ വളരെ നിർണായക ഘട്ടത്തിൽ പോലും പ്രഭുക്കന്മാർ അവരുടെ കർത്തവ്യം ചെയ്യാൻ വിസമ്മതിച്ചു അവർ കുറ്റവാളികളെപ്പോലെ കള്ളന്മാരെയും വഞ്ചകരെയും പോലെ പെരുമാറുന്നു കാരണം അവർ രാജാവിന്റെ ആളുകളെ കാണാതിരിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഒരു കുറ്റവാളിയുടെ മനോഭാവമാണ് നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ അവർ ആഗ്രഹിക്കുന്നു ഇടുങ്ങിയ പാതകൾ അതാണ് ഈ പ്രഭുക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഇടുങ്ങിയ പാതകൾ ആ ഇടം തന്നെ വളരെ പ്രതീകാത്മകമാണ് അവർ വലിയ റോഡുകൾ ഉപയോഗിക്കുന്നില്ല നേരെ ഉള്ള റോഡോ നഗരത്തിലെ പ്രധാന റോഡോ ഉപയോഗിക്കുന്നില്ല പകരം വ്യക്തിപരമായ ആഗ്രഹങ്ങൾ വ്യക്തിപരമായ സുഖങ്ങൾക്ക് വേണ്ടി അവർ തങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയ പാതകൾ ഉപയോഗിക്കുന്നു അത് അവർ തിരഞ്ഞെടുക്കുന്ന കുറുക്കുവഴികളുടെ പ്രതീകമാണ് അതിനാൽ നദിയുടെ തീരത്ത് കളി തുടരുന്നു അവർ ഈ ചെസ്സ് കളിക്കുമ്പോൾ നഗരത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രക്ഷുബ്ധതയോടുള്ള അവരുടെ താൽപ്പര്യം ചെസ്സിലെ ഭാഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ഒരാൾ ഗെയിമിൽ തോറ്റാൽ നഗരത്തിലെ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിൽ അയാൾക്ക് താൽപ്പര്യമുണ്ടാകും അത് അങ്ങനെ തന്നെയായിരുന്നു അവൻ വിജയിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ സംഘർഷത്തിൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല നവാബിന്റെ പതനത്തിൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു അവൻ തോൽക്കുകയാണെങ്കിൽ മാത്രം അതിനാൽ ഇത് വളരെ ദാരുണമായ ഒരു വീക്ഷണമാണ് അതിനായി തങ്ങളുടെ നഗരത്തിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തോട് പ്രഭുക്കന്മാർ ഇങ്ങനെ പ്രതികരിക്കുന്നത് വളരെ ദാരുണമാണ് അതിനാൽ നഗരത്തിന്റെ അധിനിവേശത്തോടുള്ള മിറിന്റെ പ്രതികരണമാണിത് ഇംഗ്ലീഷ് സൈന്യം നഗരം പിടിച്ചടക്കിയതിനോട് എന്തുകൊണ്ടാണ് അയാൾക്ക് അത്തരമൊരു പ്രതികരണം ഉണ്ടായതെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയ സൂത്രവാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാം 'അവരുടെ പക്കൽ പീരങ്കികളും ഉണ്ട്' അവർ ഇംഗ്ലീഷ് കമ്പനിയുടെ സേനയാണ് 'ഏതാണ്ട് അയ്യായിരത്തോളം പേർ ഉണ്ടായിരിക്കണം അവരുടെ മുഖം കുരങ്ങുകളെപ്പോലെ ചുവന്നു അവരെ നോക്കാൻ തന്നെ പേടിയാണ് 'ജനാബ് ഒഴികഴിവുകൾ പറയരുത് ഈ കുതന്ത്രങ്ങൾ ഉപയോഗിക്കരുത് പരിശോധിക്കുക ' 'നിങ്ങൾ ഒരു വിചിത്ര മനുഷ്യനാണ് ഇവിടെ നഗരം അപകടത്തിലാണ് നിങ്ങൾ ചെക്കിനെയും മേറ്റിനെയും കുറിച്ച് മാത്രം ചിന്തിക്കുന്നു നഗരം ഉപരോധിക്കപ്പെട്ടാൽ നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ' അതിനാൽ ഈ സംഭാഷണത്തിൽ നിന്ന് ഒരാൾക്ക് വ്യക്തമായും പറയാൻ കഴിയും മിർ തോറ്റ പക്ഷത്താണെന്ന് അവൻ ചെസ്സ് കളിയിൽ തോൽക്കുന്നു അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കമ്പനിയുടെ സേന നഗരം ഉപരോധിക്കുന്നതിനെ കുറിച്ചും നഗരം കൊള്ളയടിക്കപ്പെടുന്നതിനെ കുറിച്ചും അദ്ദേഹം താൽപ്പര്യപ്പെടുന്നത് മിർസയ്ക്ക് കൃത്യമായി അറിയാം ഇതിലൂടെ ഈ പ്രത്യേക പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മിർ അവനെ ഗെയിമിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് കാരണം മിർ തോറ്റു കൊണ്ടിരിക്കുന്നു ഒഴികഴിവുകൾ പറയരുത് ചെസ്സ് കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കുതന്ത്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ ഒരു വിചിത്ര മനുഷ്യനാണ് നഗരം അപകടത്തിലാകുമ്പോൾ ഒരു തരത്തിലുള്ള സഹതാപമോ വികാരമോ ഇല്ലെന്ന് അദ്ദേഹം മിർസയെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ ചെക്കിനെയും മേറ്റിനെയും കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ വളരെ സ്വാർത്ഥനാണ് നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ മിർസ പറഞ്ഞു ശരി സമയം ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് അതിനാൽ ഈ പ്രതികരണം അവരുടെ മാനസികാവസ്ഥയും ചെസ്സ് ഗെയിമിന് പുറത്ത് സംഭവിക്കുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങളെ അവർ എങ്ങനെ കാണുന്നുവെന്നും നിങ്ങളോട് പറയുന്നു രാഷ്ട്രീയ സംഘർഷങ്ങൾ പോലും അവർ അനുഭവിക്കുന്ന ജയപരാജയങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് മിറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഖേദപ്രകടനം യഥാർത്ഥ ഖേദമല്ല അത് ഒരു നിസ്സഹമായ ഖേദമാണ് അത് ഒരു ബാഹ്യമായ ഖേദമാണ് അതിന്റെ അർത്ഥം യഥാർത്ഥ വികാരം അവിടെ ഇല്ല ഖേദം ഒരു ഉപായമായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് മിർസ ശരിയായി ചൂണ്ടിക്കാണിക്കുന്നു ഗെയിമിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കാനുള്ള ഒരു ഒഴികഴിവ് മാത്രമാണ് അവൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നഗരത്തിൽ ഒരു ബഹളവും വഴക്കും ഉണ്ടായില്ല അതിനാൽ ഈ ഉദ്ധരണി നവാബ് വാജിദ് അലിയുടെ അറസ്റ്റിനെക്കുറിച്ചാണ് നഗരത്തിൽ ഒരു കോലാഹലവും യുദ്ധവും ഉണ്ടായില്ല അതിനാൽ നഗരം ഇംഗ്ലീഷ് കമ്പനി സേനയുടെ കൈകളിലേക്ക് വീഴുമ്പോൾ ഉള്ള സ്ഥിതിഗതികളുടെ സംഗ്രഹമാണിത് കൂടാതെ ഈ രണ്ട് പ്രഭുക്കന്മാരോട് ആഖ്യാതാവ് അങ്ങേയറ്റം ദേഷ്യത്തിലാണ് വിദേശ ശക്തികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതിൽ രണ്ട് പ്രഭുക്കന്മാരും ലഖ്നൌ നഗരത്തിലെ ജനങ്ങളും ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്തതിനാൽ അദ്ദേഹം വളരെ അമർഷത്തിലാണ് അതിനാൽ നഗരത്തിൽ ഒരു കോലാഹലവും യുദ്ധവും രക്തച്ചൊരിച്ചിലും ഉണ്ടായില്ല ഒരു സ്വതന്ത്ര രാജ്യത്തിലെ രാജാവും രക്തച്ചൊരിച്ചിലില്ലാതെ ഇത്ര നിശബ്ദമായി പരാജയപ്പെടുമായിരുന്നില്ല ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള അഹിംസയല്ല വലിയ ഭീരുക്കൾ പോലും കണ്ണീർ പൊഴിക്കുന്ന ഭീരുത്വത്തിന്റെ ഒരു രൂപമായിരുന്നു അത് അവധ് പോലൊരു വിശാലമായ രാജ്യത്തിന്റെ രാജാവ് തടവുകാരനായി ആട്ടിയോടിക്കപ്പെട്ടു ലഖ്നൌ നഗരം ശാന്തമായി ഉറങ്ങുകയായിരുന്നു ഇതായിരുന്നു രാഷ്ട്രീയ തകർച്ചയുടെ കാരണം അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പതനത്തെക്കുറിച്ച് ആഖ്യാതാവിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങളും അമർഷവും ഉണ്ട് അതിനാൽ ലഖ്നൌ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ കീഴിലാകുമ്പോൾ രാജ്യത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നു ആളുകളുടെ ബഹളമോ ആരവങ്ങളോ ഉണ്ടായില്ല എന്നതിൽ അദ്ദേഹത്തിന് ശരിക്കും സങ്കടമുണ്ട് തങ്ങളുടെ രാജാവിനെ രക്ഷിക്കാൻ ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു പോരാട്ടമോ ലഹളയോ ഉണ്ടായില്ല യുദ്ധങ്ങളൊന്നുമില്ല ആളുകൾ അവരുടെ നഗരത്തിന്റെ മേലുള്ള അധികാരം നിഷ്ക്രിയമായി ഉപേക്ഷിച്ചു രക്തച്ചൊരിച്ചിലില്ല അതിനാൽ തോൽവി വളരെ നിശബ്ദമായിരുന്നു വീണ്ടും രക്തച്ചൊരിച്ചിലില്ല അത് പൂർണ്ണമായും അഹിംസാത്മകമായിരുന്നു ഈ അഹിംസ വിലമതിക്കാനാവാത്തതാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അഹിംസയെ വിലമതിക്കാൻ കഴിയില്ല കാരണം ആളുകൾ വിദേശ ഭരണാധികാരികൾക്ക് അധികാരം വിട്ടുകൊടുക്കുന്നു ഇത്തരത്തിലുള്ള അഹിംസ ദൈവങ്ങളെ പ്രസാദിപ്പിക്കില്ല ദൈവങ്ങൾ സന്തുഷ്ടരായിരിക്കില്ല ഇത് വെറും ഭീരുത്വമാണ് ഭീരുത്വത്തിന്റെ പാരമ്യതയാണ് വലിയ ഭീരുക്കൾ പോലും കണ്ണീരൊഴുക്കുമെന്നും ഈ നഗരത്തിലെ ഈ പ്രത്യേക അവസ്ഥയിൽ അസന്തുഷ്ടരായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു അവധ് പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന്റെ രാജാവ് അവധ് സമ്പന്നമായിരുന്നു അത് വളരെ വലുതായിരുന്നു പക്ഷേ രാജാവ് ഒരു തടവുകാരനെപ്പോലെ ആട്ടിയോടിക്കപ്പെട്ടു ഒരു തടവുകാരന്റെ ചിത്രം വളരെ രസകരമാണ് കാരണം അത് ആവർത്തന ചിത്രമാണ് ലഖ്നൌ നഗരം ശാന്തമായി ഉറങ്ങുകയായിരുന്നു വീണ്ടും ഈ സമാധാനം വിലമതിക്കേണ്ടതില്ല ഈ സമാധാനം പ്രശംസനീയമല്ല ഇത് രാഷ്ട്രീയ തകർച്ചയുടെ കാരണമായിരുന്നു രാഷ്ട്രീയ തകർച്ചയുടെ ഏറ്റവും അടിത്തട്ട് എന്നർത്ഥം അതിനാൽ ഇംഗ്ലീഷ് സൈന്യത്തിന് അവധ് നഷ്ടമായതിൽ നമുക്ക് രാഷ്ട്രീയ തകർച്ചയുണ്ട് കൂടാതെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനമില്ലായ്മയെ വിമർശിക്കുകയായിരുന്നു പ്രേംചന്ദ് അതിനാൽ ഒരു തടവുകാരൻ എന്ന ആശയം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ട് പ്രഭുക്കന്മാരും തടവുകാരാണെന്നും ഈ ചെസ്സ് കളിയുടെ പ്രതീകാത്മക തടവുകാരാണെന്നും നവാബ് വാജിദ് അലി രാജാവും ഇംഗ്ലീഷ് സൈന്യത്തിന്റെ തടവുകാരാണെന്നും നമുക്ക് കാണാൻ കഴിയും അതിനാൽ അവിടെ ഒരു സമാന്തരമുണ്ട് ഈ കഥയിൽ മിക്കവാറും എല്ലാവരും തടവുകാരാണ് ഭർത്താവിന്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നതിനാൽ മിർസയുടെ ഭാര്യ തടവുകാരിയാണ് അതിനാൽ അവൾ അക്കാര്യത്തിൽ ഒരു ആലങ്കാരിക തടവുകാരി കൂടിയാണ് മറ്റേ ഭാര്യ അതായത് മിറിന്റെ ഭാര്യയും അവളുടെ അവിഹിത ബന്ധത്തിൽ തടവുകാരിയാണ് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സുഖഭോഗങ്ങൾക്കായി തടവുകാരായി മാറുന്നു ഉറങ്ങുക എന്ന ആശയവും വളരെ രസകരമാണ് കാരണം ഈ പ്രത്യേക രാജ്യത്ത് എല്ലാവരും മയക്കുമരുന്ന് കഴിക്കുന്ന അവസ്ഥയിലാണ് അതിനാൽ മയക്കത്തിന്റെ ഒരു അംശമുണ്ട് ആഴ്ന്ന് പോയതിന്റെ ഒരു അംശമുണ്ട് മുങ്ങിപ്പോയതിന്റെ ഒരു ഘടകമുണ്ട് രാജാവിനെ തടവുകാരനെപ്പോലെ കൊണ്ടുപോകുമ്പോൾ വീണ്ടും ഉറങ്ങുക എന്ന ആശയവുമുണ്ട് അതെല്ലാം പരസ്പരം പ്രതിധ്വനിക്കുന്നു അതിനാൽ അബോധാവസ്ഥയിലായിരിക്കുക ഉപബോധമനസ്സ് മയക്കുമരുന്നിന് അടിമയായിരിക്കുക എന്ന ആശയത്തിന്റെ ശക്തമായ ഉദ്ബോധനം അവിടെ ഉണ്ട് കൂടാതെ ഈ അപരിഷ്കൃത ലോകത്തിൽ ഒരു രാഷ്ട്രീയ അടിത്തട്ടിന്റെ ഈ പതനം വളരെ പ്രതീകാത്മകമാണ് ഈ ആനന്ദക്കുഴിയിൽ മുങ്ങിത്താഴുന്നത് പോലെയാണ് രാഷ്ട്രീയ പതനം അതിനാൽ ഈ ഒരു ഭാഗം അത് ആഴത്തിലുള്ള രൂപകമാണ് അത് അനുരണനമാണ് എന്നാൽ ഈ നിർദ്ദിഷ്ട കഥയിൽ വീണ്ടും ആവർത്തിക്കുന്ന ചില ചിത്രങ്ങൾ ആണ് അവ അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ധാരാളം സങ്കടകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു പ്രഭുക്കന്മാർ അവരുടെ കളിയിൽ മുഴുകി ഇരിക്കുകയും ലഖ്നൌവിലെ ജനങ്ങൾ അവരുടെ സുഖലോലുപതയിൽ മുങ്ങുകയും ചെയ്യുമ്പോൾ രാജാവിനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി പിടിച്ച് കൊണ്ടുപോകുന്നു ആഖ്യാതാവ് ജനങ്ങളുടെ ഭീരുത്വത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നു ലോകത്തെവിടെയുമുള്ള ഭീരുത്വത്തിന്റെ ഏറ്റവും മോശമായ രൂപമാണിതെന്ന് അദ്ദേഹം പറയുന്നു ഈ സമാധാനപരമായ ഉറക്കത്തെ ആഖ്യാതാവ് വിമർശിക്കുകയും ചെയ്യുന്നു ഈ കഥയിൽ ധാർമ്മികമായ ഉന്നതസ്ഥാനം വഹിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയായ ആഖ്യാതാവും നിഷിതമായി വിമർശിക്കുന്നു അതിനാൽ ഇത് ഉറക്കമല്ല ഇത് നിഷ്ക്രിയത്വത്തിന്റെ പരമാവധിയാണ് വിദേശ ശക്തിക്ക് ഒരു തരത്തിലുമുള്ള പോരാട്ടവുമില്ലാതെ രാജ്യം വിട്ടുകൊടുക്കാൻ കഴിയുന്ന ആളുകളുടെ ഭാഗത്ത് നിഷ്ക്രിയത്വത്തിന്റെ പരമാവധിയാണ് അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പില്ല അവർ ബഹളം വയ്ക്കുന്നില്ല ബഹളമുണ്ടാക്കുന്നില്ല അത് തികച്ചും പരാജയമാണ് അവരുടെ സമ്പന്നവും വിശാലവുമായ അവധ് പ്രദേശം ഒരു വിദേശ ശക്തിക്ക് വിട്ടുകൊടുക്കുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലജ്ജാകരമായ നഷ്ടമാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ അഹിംസ വെറുപ്പുളവാക്കുന്നതാണ് ലഖ്നൌവിലെ ജനങ്ങൾ ധീരമായ ഒരു പോരാട്ടവും നടത്താത്തതിനാൽ ഇത് വെറുപ്പുളവാക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മിർസയുടെ പ്രതികരണമുണ്ട് ഭരണാധികാരിയായിരുന്ന നവാബ് സാഹിബിനെ പിടികൂടി ലഖ്നൌവിന്റെ പതനത്തോടുള്ള മിർസയുടെ പ്രതികരണമാണിത് രാഷ്ട്രീയ തകർച്ചയോടുള്ള മിർസയുടെ താൽപ്പര്യത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അവൻ തന്റെ ചെസ്സ് കളിയിൽ പരാജയപ്പെടുകയാണെന്ന് ചെസ്സ് കളിയിൽ തോൽക്കുന്നതിനാൽ നവാബിന്റെ പതനത്തിൽ അയാൾക്ക് താൽപ്പര്യമുണ്ട് അപ്പോൾ മിർസ പറഞ്ഞു 'സ്വേച്ഛാധിപതികൾ നവാബ് സാഹിബിനെ പിടികൂടി കാര്യമാക്കേണ്ടതില്ല നിങ്ങളുടെ രാജാവിനെ രക്ഷിക്കൂ എന്ന് മിർ പറയുന്നു ഒരു നിമിഷം ജനാബ് എനിക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല പാവം നവാബ് സാഹിബ് രക്തക്കണ്ണീർ ഒഴുക്കുന്നുണ്ടാവും ഈ ആഡംബരങ്ങൾ ഒന്നും അയാൾക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയില്ല ഇവയെല്ലാം ഒരുപോലെയല്ല എന്തൊരു വേദനാജനകമായ അവസ്ഥ അത് സത്യമാണ് ഇതാ ഇവിടെ വീണ്ടും ചെക്ക് ഇപ്പോൾ ഇത് മേറ്റ് ആണ് ഇനി നിനക്ക് രക്ഷയില്ല ദൈവ സത്യം നിങ്ങൾ വളരെ ക്രൂരനാണ് ഇത്രയും വലിയ ആപത്തുണ്ടായിട്ടും നിങ്ങൾ അനങ്ങുന്നില്ല അയ്യോ പാവം വാജിദ് അലി ഷാ അതിനാൽ നവാബ് സാഹിബ് പിടിയിലായത് മിർസയെ ഭയങ്കരമായി ബാധിച്ചു നവാബ് സാഹിബ് രക്തക്കണ്ണീർ ഒഴുക്കുന്നുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു അതൊരു വലിയ വിപത്താണ് അതൊരു വലിയ ദുരന്തമാണ് ഈ സഹതാപവും മിർസയുടെ ഈ വൈകാരിക പ്രതികരണം മിറിന്റെ പ്രതികരണത്തിന് സമാന്തരമാണ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അയാൾ പറഞ്ഞത് ഇപ്രകാരമാണ് നഗരം ഉപരോധിച്ചാൽ നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കൂടാതെ നഗരം അപകടത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു ഈ രണ്ടു മനുഷ്യരും തമ്മിൽ ഇവിടെ ഒരു സമാന്തരമുണ്ട് അവർ തോൽക്കുന്ന പക്ഷത്താണെങ്കിൽ നഗരത്തോടുള്ള അവരുടെ വൈകാരിക പ്രതികരണങ്ങളും ഒന്നുതന്നെയാണ് അതിനാൽ അവരുടെ വ്യക്തിപരമായ സുഖം തടസ്സപ്പെട്ടാൽ മാത്രമേ അവർ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വിഷമിക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ അവർ രാഷ്ട്രീയ സംഘർഷത്തോട് പ്രതികരിക്കൂ ദുരന്തം എന്ന വാക്ക് ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അവർ യുദ്ധക്കളത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല കാരണം അവർക്ക് ഒരു ദുരന്തം നേരിടേണ്ടിവരുമെന്ന് അവർ ആശങ്കാകുലരാണ് അവർ യുദ്ധക്കളത്തിൽ മരിക്കും അതിനാലാണ് അവർ ഗോമതി നദിയുടെ തീരത്തേക്ക് പോകുന്നത് അതുകൊണ്ട് ആ വിപത്ത് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യക്ഷത്തിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ അഭാവം മൂലം ഈ നിർദ്ദിഷ്ട സംസ്ഥാനത്തിന്റെ ഭരണാധികാരിക്ക് മറ്റൊരു വിപത്ത് സൃഷ്ടിക്കുന്നു അതിനാൽ അവരുടെ പ്രവർത്തനങ്ങളും വാജിദ് അലി ഷായ്ക്ക് നേരിടേണ്ടി വരുന്ന സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ട് അതിനാൽ ഈ രംഗം ചില അർത്ഥത്തിൽ വളരെ രസകരമാണ് കാരണം ഇത് ഒരു കാപട്യമാണ് പ്രയോഗിച്ച കാപട്യമാണ് ഓരോ കളിക്കാരന്റെയും ചെസ്സ് കളി പുരോഗമിക്കുന്ന രീതിയിൽ നിന്ന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം നിങ്ങൾ കഥയെ മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചാൽ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളായ മിറും മിർസയും ഗെയിമിനോടുള്ള ആസക്തി കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയും അവർ ഒന്നിന് പുറകെ ഒന്നായി വീട്ടിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടു അവർക്ക് ദൂതന്മാരിൽ നിന്ന് രക്ഷപ്പെടേണ്ടിവന്നു അവർ വ്യാജ സന്ദേശവാഹകരാണെങ്കിൽ പോലും ചെസ്സ് കളിക്കുന്നതിന് വേണ്ടി അവർക്ക് അവരിൽ നിന്നും രക്ഷപ്പെടേണ്ടി വന്നു അവരുടെ അഭിനിവേശം കാരണം അവർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതിനാൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഥയിലെ ഈ ഘട്ടത്തിൽ മിർസ തുടർച്ചയായി മൂന്ന് ഗെയിമുകളിൽ പരാജയപ്പെട്ടു അങ്ങനെ അവൻ തുടർച്ചയായി മൂന്ന് തവണ തോറ്റു അവൻ അത്ര സന്തോഷവാനല്ല അടുത്ത കളിയിലും അവൻ തോൽവിയുടെ വക്കിലാണ് ഇത് കഥയുടെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ കഥയുടെ യഥാർത്ഥ ക്ലൈമാക്സ് പതനവുമായി ബന്ധപ്പെട്ടതല്ല ലഖ്നൌവും അവധ് സംസ്ഥാനവും അനുഭവിക്കുന്ന രാഷ്ട്രീയ തകർച്ചയുമായി ബന്ധപ്പെട്ടതല്ല നേരെമറിച്ച് അത് മിർസ എന്ന കളിക്കാരന്റെ കളിയുടെ തോൽവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരാജിതനായ മിർസ ചെസ്സ് കളിയുടെ മര്യാദയെച്ചൊല്ലി വഴക്കുണ്ടാക്കുന്നു അവൻ നിരന്തരം തോൽക്കുന്നതിനാൽ അയാൾക്ക് അതൃപ്തിയുണ്ട് കൂടാതെ ചെസ്സ് കളിയുടെ മര്യാദയിൽ അവൻ തെറ്റ് കണ്ടെത്തുന്നു അവിടെ മിർ ഒരു നീക്കത്തിന് ധാരാളം സമയമെടുക്കുന്നു അത് മിർസയെ രോഷാകുലനാക്കുന്നു അവൻ പറയുന്നു "നിങ്ങൾ ഒരു നീക്കം നടത്താത്തിടത്തോളം ഒരു പീസും തൊടരുത് നിങ്ങൾ വളരെയധികം സമയമെടുക്കുന്നു ഇത് കളിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഒരാൾ അഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയമെടുത്താൽ അവനെ പരാജിതനായി കണക്കാക്കണം ഇപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ നീക്കം മാറ്റി ദയവായി പീസ് തിരികെ വയ്ക്കുക " അതിനാൽ ജയവും തോൽവിയും എന്ന ആശയവും കളിയുടെ നിയമങ്ങളും രണ്ട് തലങ്ങളിൽ പ്രധാനമാണ് ഒരു തലത്തിൽ ഇത് ഒരു കളിക്കാരന്റെ വിജയ സാധ്യതയെ ബാധിക്കുന്നു ഈ പ്രത്യേക സന്ദർഭത്തിൽ അത് മിർസയാണ് അവൻ അസന്തുഷ്ടനാണ് കാരണം മിർ ചെസ്സ് കളിയുടെ മര്യാദകൾ പാലിക്കുന്നില്ല നിങ്ങൾ വളരെയധികം സമയമെടുക്കുകയാണെന്നും അത് ഗെയിം വിജയിക്കാനുള്ള എന്റെ സാധ്യതകളെ ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇതാണ് ആദ്യത്തെ ലെവൽ മറ്റൊരു തലവുമുണ്ട് വിജയികളെയും പരാജിതരെയും കുറിച്ച് സംസാരിക്കുന്ന ആലങ്കാരിക തലം അവിടെ കൂടുതൽ പരാജിതർ ആണ് ഉള്ളത് നവാബ് ഇവിടെ കൂടുതൽ പരാജിതനാണ് ലഖ്നൌവിലെ ജനങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയോട് വീണ്ടും തോറ്റു യഥാർത്ഥ രാഷ്ട്രീയ ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ പ്രത്യേക ഗെയിമിന്റെ വിജയികളെയും പരാജിതരെയും കുറിച്ച് വേവലാതിപ്പെടുന്ന ഈ രണ്ട് കളിക്കാർ ആ ആശയം പൂർണ്ണമായും മറന്നു വീട്ടിൽ പോയാൽ അടിമകളാക്കപ്പെട്ട വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് അവർ തിരിച്ചറിയുന്നില്ല ആ ആശയം രണ്ട് കളിക്കാരുടെയും മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനവും ചെലുത്തുന്നില്ല അതിനാൽ കളിയുടെ ഈ നിയമങ്ങളെക്കുറിച്ച് അവർ ആശങ്കാകുലരാകുന്നു അതിനാൽ ചെസ്സ് മര്യാദകളെ ചൊല്ലിയുള്ള ഈ ഏറ്റുമുട്ടലിന്റെ ഫലമായി അവർ പരസ്പരം കുലീനതയെ ഇകഴ്ത്തുന്നു അതിനാൽ അവർ പരസ്പരം പൂർവ്വികരെയും വംശപരമ്പരയെയും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് എത്തുന്നു നിങ്ങളുടെ പൂർവ്വികൻ ഒരു പുല്ലുവെട്ടുകാരനായിരുന്നുവെന്ന് ഒരാൾ പറയുന്നു മറ്റൊരാൾ പറയുന്നു നിങ്ങളുടെ പൂർവ്വികൻ ഒരു പാചകക്കാരനായിരുന്നു ഇപ്രകാരം പരസ്പരം വംശപരമ്പരയ്ക്കെതിരെ നടത്തുന്ന പരാമർശങ്ങൾ അവരെ പരസ്പരം ദേഷ്യം പിടിപ്പിക്കുന്നു ആ കോപം അവർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു അത് അവരുടെ മരണത്തിലേക്ക് ഉള്ള പോരാട്ടമാണ് അത് വളരെ രസകരമാണ് അതിനാൽ ഇത് കളിയുടെ നിയമങ്ങളെച്ചൊല്ലിയുള്ള കലഹമായി ആരംഭിക്കുന്ന ഒരു പോരാട്ടമാണ് അവർ പരസ്പരം വംശാവലിയെ അപമാനിക്കുന്ന മറ്റൊരു തലത്തിലേക്ക് അത് ശരിക്കും നീങ്ങുന്നു അവസാനം അവർ തങ്ങളുടെ ബഹുമാനം സംരക്ഷിക്കാൻ വാളെടുക്കുന്നു അപരന്റെ പരാമർശങ്ങളാൽ ബഹുമാനം കളങ്കപ്പെട്ടുവെന്ന് കരുതുന്ന അവർ യുദ്ധം ചെയ്യുന്നു അതിൽ അവർ മരിക്കുന്നു അതിനാൽ "രണ്ട് സുഹൃത്തുക്കളും അവരുടെ അരയിൽ നിന്ന് വാളെടുത്തു അത് ധീരതയുടെ കാലമായിരുന്നു എല്ലാവരുടെയും കയ്യിൽ വാളോ കഠാരയോ ഉണ്ടായിരുന്നു രണ്ട് സുഹൃത്തുക്കളും ഉല്ലാസപ്രിയരായിരുന്നു പക്ഷേ ഭീരുക്കളായിരുന്നില്ല അവർ രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലാത്തവരായി മാറിയിരുന്നു അവർ എന്തിന് രാജാക്കന്മാർക്കോ രാജ്യങ്ങൾക്കോ വേണ്ടി മരിക്കണം എന്നാൽ വ്യക്തിപരമായ ധൈര്യത്തിന് അവർക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും പോരാടി മാരകമായി മുറിവേറ്റു വേദനയോടെ പുളഞ്ഞു മരിച്ചു തങ്ങളുടെ രാജാവിനുവേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാൻ കഴിയാത്ത അവർ ചതുരംഗപ്പലകയിലെ വസീറുകളെ രാജാക്കന്മാരെ സംരക്ഷിച്ചുകൊണ്ട് മരിച്ചു " ഈ രണ്ടു ഭീരുക്കളുടെയും പെരുമാറ്റത്തെ കുറിച്ച് ആഖ്യാതാവിന്റെ ഭാഗത്തുനിന്നും പരിഹാസവും രോഷവും നിറഞ്ഞ ഒരു ഭാഗമാണിത് ഇത് ധീരതയുടെ കാലമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ വളരെ വിരോധാഭാസമാണ് തങ്ങളുടെ രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യാത്ത ഈ രണ്ട് പ്രഭുക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ഇതാണ് അതാണ് ധീരതയുടെ ശരിയായ കോഡ് അവർ തങ്ങളുടെ രാജാവിനുവേണ്ടി യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ഈ രണ്ട് പ്രഭുക്കന്മാരും രാജാവിനെയും സാമ്രാജ്യത്തെയും സംരക്ഷിക്കുന്നതിൽ ധീരരായിരുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു എന്നാൽ അവർ അത് ചെയ്യുന്നില്ല അവർ അന്യോന്യം തങ്ങളുടെ ബഹുമാനത്തിന് വേണ്ടി പോരാടുന്നു അവർ തങ്ങളുടെ സ്വന്ത താല്പര്യത്തിന് വേണ്ടി പോരാടുന്നു അവരുടെ വ്യക്തിപരമായ ബഹുമാനത്തിന് വേണ്ടി പോരാടുന്നു അക്കാലത്ത് എല്ലാവരും വാളോ കഠാരയോ ഉപയോഗിച്ച് സജ്ജരായിരുന്നു രണ്ട് സുഹൃത്തുക്കളും സുഖപ്രിയരായിരുന്നു എന്നാൽ ഭീരുക്കളായിരുന്നില്ല ഈ പ്രസ്താവന വീണ്ടും അൽപ്പം വിരോധാഭാസമാണ് കാരണം അവർ ഒരു തരത്തിൽ ഭീരുക്കളാണ് കാരണം അവർക്ക് ദൂതനെ പോയി കാണാൻ ധൈര്യമില്ല അവർക്ക് യുദ്ധക്കളത്തിലേക്ക് പോകാനുള്ള ധൈര്യമില്ല ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്കെതിരെ പോരാടാൻ കഴിയുന്ന സൈന്യത്തെ സംഘടിപ്പിക്കാൻ അവർക്ക് ധൈര്യമില്ല എന്നാൽ അവർ ഭീരുക്കളുമല്ല കാരണം അവർ തങ്ങളുടെ വാളുകൾ ഊരി പരസ്പരം പോരടിക്കുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതായ പലതരം ധീരത ഇവിടെയുണ്ട് അവരുടെ വ്യക്തിപരമായ ബഹുമാനമോ ഈഗോയോ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രം പുറത്ത് വരുന്ന ഒരു ധൈര്യമാണിത് അവർക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലാതായിരിക്കുന്നു രാഷ്ട്രീയ വിഷയങ്ങളിൽ അവർക്ക് ആശങ്കയില്ല അവർ രാഷ്ട്രീയമായി നിസ്സംഗരാണെങ്കിലും വ്യക്തിപരമായി ഉദാസീനരല്ല അവരുടെ ഈഗോയെക്കുറിച്ച് അവർ വളരെയധികം ആശങ്കാകുലരാണ് രാജാക്കന്മാർക്കോ രാജ്യങ്ങൾക്കോ വേണ്ടി എന്തിന് മരിക്കണം എന്ന് ആഖ്യാതാവ് ആലങ്കാരികമായി ചോദിക്കുന്നു അവർ മാരകമായി പോരാടുന്നു അവർ ചെസ്സ് കളിയിൽ തങ്ങളുടെ വസീറുകൾക്ക് വേണ്ടി മരിക്കുന്നു യഥാർത്ഥ വസീറുകൾക്ക് വേണ്ടിയല്ല യുദ്ധക്കളത്തിലെ യഥാർത്ഥ രാജാവിന് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ആത്മാവോ ജീവനോ ഇല്ലാത്ത ഈ ചെസ്സ് പീസുകൾക്കുവേണ്ടിയാണ് അവർ മരിക്കുന്നത് അതിനാൽ അവർ ഈ വെർച്വൽ ഗെയിമിനും ഈ ഗെയിം കാരണം കോട്ടം തട്ടിയതായി തോന്നുന്ന തങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി പോരാടുന്നു അതിനാൽ ഇതൊരു മനഃശാസ്ത്രപരമായ ക്ലൈമാക്സാണ് പ്രേംചന്ദ് ഈ കഥയിൽ ചെറുകഥയെക്കുറിച്ചുള്ള തന്റെ സിദ്ധാന്തം കൈവരിക്കുന്നു അവിടെ ഈ കഥയിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ഉൾക്കാഴ്ച ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അദ്ദേഹം സംഭവങ്ങൾ കൊണ്ടുവരുന്നു ഈ രണ്ട് പ്രഭുക്കന്മാരും ചെസ്സ് കളി കാരണം മരിക്കുമ്പോൾ അദ്ദേഹം അതിനെ നിർണായക ഘട്ടത്തിലെത്തിക്കുന്നു ജീവിതം മുഴുവൻ അവർ ഈ ചെസ്സ് കളിയിൽ മുഴുകി ഈ ചെസ്സ് കളി കാരണം അവരുടെ ജീവിതം മുഴുവൻ ഇല്ലാതാകുന്നു അതുകൊണ്ട് അവർ രാഷ്ട്രീയമായി നിഷ്ക്രിയരാണ് അവർ നിസ്സംഗരാണ് എന്നാൽ അവരുടെ വ്യക്തിപരമായ ധൈര്യം ഈ ചെസ്സ് ഗെയിമിലൂടെയും പ്രകടമാണ് യഥാർത്ഥ ശത്രുവല്ലാത്ത ഒരു ശത്രുവിനോട് അവർ പോരാടുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് ഏതാണ്ട് ഡോൺ ക്വിക്സോട്ട് പോലെയാണ് രാജ്യം പിടിച്ചടക്കിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയാണ് യഥാർത്ഥ ശത്രു എന്നാൽ അവർ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നതുപോലെ പരസ്പരം പോരടിക്കുന്നു യഥാർത്ഥ രാജാവിനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി തടവിലാക്കിയപ്പോൾ യഥാർത്ഥ രാജാവ് തടവിലാക്കപ്പെട്ടപ്പോൾ ചെസ്സ് രാജാക്കന്മാരെ പ്രതിരോധിച്ചുകൊണ്ട് അവർ മരിക്കുന്നു അവർ തങ്ങളുടെ ചെസ്സ് രാജാക്കന്മാരെക്കുറിച്ച് ആകുലപ്പെടുന്നു അവർ ചെസ്സ് രാജാക്കന്മാരെയും വസീറുകളെയും രക്ഷിക്കാൻ പോരടിക്കുന്നു അതുകൊണ്ട് ഈ മനഃശാസ്ത്രപരമായ ക്ലൈമാക്സ് നാം ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ആഖ്യാതാവ് ചെസ്സ് കളിക്കിടയിൽ സംഭവിക്കുന്ന ഭീകരമായ പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കരമായ ചെസ്സ് പോരാട്ടം ആഖ്യാതാവ് ചെസ്സ് പോരാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഈ ബദൽ യുദ്ധം നമുക്ക് യഥാർത്ഥ ഇരകൾ ഉള്ളപ്പോൾ തന്നെ പ്രതീകാത്മക യുദ്ധം ഒരു യഥാർത്ഥ യുദ്ധമായി മാറുന്നു രണ്ട് പ്രഭുക്കന്മാരും യഥാർത്ഥ ഇരകളായിത്തീരുന്നു അവരുടെ രക്തം ചൊരിയപ്പെടുന്നു യഥാർത്ഥ മരണം സംഭവിക്കുന്നു അതിനാൽ ഒരു ആലങ്കാരിക തലത്തിൽ നിന്നും നമ്മൾ ഒരു യഥാർത്ഥ തലത്തിലേക്ക് എത്തി അവിടെ പ്രഭുക്കന്മാരുടെ യഥാർത്ഥ ജീവിതത്തിൽ അവരുടെ സുഖഭോഗങ്ങളോടുള്ള അഭിനിവേശവും ചെസ്സ് കളിയോടുള്ള അഭിനിവേശവും കാരണം അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഇതാണ് കഥയിലെ അവസാന പ്രസ്താവന അവസാനത്തെ ഒരു കൂട്ടം ആശയങ്ങൾ നിശബ്ദത എല്ലായിടത്തും വാഴുന്നു എന്ന് ആഖ്യാതാവ് പറയുന്നു നിശബ്ദത ചുറ്റും വാഴുന്നു എല്ലാം നിശ്ശബ്ദമായിരുന്നു ഒരു നഗരം ഉറങ്ങുന്നത് പോലെ രാജാവ് തടവിലാക്കപ്പെട്ടപ്പോൾ പ്രദേശം മുഴുവൻ നിശബ്ദമായി മൌനം മാത്രമാണ് ഇവിടെ ഭരണം നടത്തുന്നത് മസ്ജിദിന്റെ തകർന്ന കമാനങ്ങളും തകർന്ന മതിലുകളും പൊടിപടലങ്ങൾ നിറഞ്ഞ തൂണുകളും ഈ ശവശരീരങ്ങളെ നോക്കി അവരുടെ വിധിയെ ശപിച്ചുകൊണ്ടിരുന്നു ജീർണ്ണിച്ച മസ്ജിദ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇത് ഒരു തകർന്ന പള്ളിയാണ് പള്ളി ഈ രണ്ട് മനുഷ്യരെയും ഈ രണ്ട് പേരുടെയും മൃതദേഹങ്ങൾ നിരീക്ഷിക്കുന്നതായി തോന്നുന്നു അവ അവരുടെ വിധിയെ ശപിക്കുന്നതായി കാണപ്പെടുന്നു ഈ ചെസ്സ് കളിയോടുള്ള അഭിനിവേശം കാരണം ജീവൻ നഷ്ടപ്പെട്ട രണ്ട് കളിക്കാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കെട്ടിടങ്ങൾ തന്നെ അഭിപ്രായപ്പെടുമെന്ന് തോന്നുന്ന വിധത്തിൽ കഥയുടെ അവസാനത്തിൽ ഒരു തരം നരവംശ പ്രഭാവം ഇവിടെയുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ പിടിയിൽ അകപ്പെട്ട ഈ സമ്പന്ന നഗരമായ ലഖ്നൌവിലെ ജനങ്ങളേയും ജനങ്ങളെ ദുഷിപ്പിച്ച ആഹ്ളാദങ്ങളുടെ ശ്രേണിയുടെ പ്രതീകമാണ് ആ ചെസ്സ് കളി അതിനാൽ കഥയുടെ പ്രധാന പ്രമേയം അതാണ് എന്ന് കാണുന്നു അത് പ്രതീകാത്മകമായും ഘടനാപരമായും പ്രേംചന്ദ് ഒരു മാസ്റ്റർഫുൾ ഫാഷനിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഈ പ്രഭാഷണം വീക്ഷിച്ചതിന് നന്ദി അടുത്ത സെഷനിൽ ഞാൻ തുടരും